ഇതിനു മുൻപുള്ള 3 ക്ലാസ്സുകളിൽ നമ്മൾ ഹൈസെൻബെർഗ് ഏതു രീതിയിൽ ക്വാണ്ടം മെക്കാനിക്സ് മായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികൾ രൂപീകരിച്ചു എന്നാണ് ചർച്ച ചെയ്തത് ഹൈസെൻബെർഗ് ക്വാണ്ടം മെക്കാനിക്സിലെ പല പ്രധാന ഘടകങ്ങളും മെട്രിക്സ് രൂപത്തിലാണ് പ്രതിനിധാനം ചെയ്തതെങ്കിലും അവ യഥാർത്ഥത്തിൽ മെട്രിക്സുകളാണെന്നു അദ്ദേഹത്തിന് അപ്പോൾ അറിയില്ലായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഭൌതികശാസ്ത്രത്തിന് അനുയോജ്യമായ രീതിയിൽ അഥവാ ഭൌതികശാസ്ത്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ മെട്രിക്സിന്റെ ഗുണനനിയമങ്ങൾ മാറ്റി എഴുതുകയായിരുന്നു ഹൈസെൻബെർഗിന്റെ റിസെർച് പേപ്പർ വായിച്ചപ്പോഴാണ് മാക്സ് ബോൺ തിരിച്ചറിഞ്ഞത് ഹൈസെൻബെർഗ് തന്റെ പേപ്പറിൽ സൂചിപ്പിച്ച പരാമീറ്ററുകളും അവയുടെ ബീജഗണിതവുമെല്ലാം മെട്രിക്സിനെയും മെട്രിക്സ് ആൾജിബ്ര യെയും കുറിച്ചാണ് മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ അവയുടെയെല്ലാം ഭാഷ മെട്രിക്സും അതിന്റെ ആൾജിബ്രയുമാണ് എന്ന കാര്യം അങ്ങനെ മാക്സ് ബോൺ ഹൈസെൻബെർഗിന്റെ വീക്ഷണത്തിലുള്ള ക്വാണ്ടം മെക്കാനിക്സിന്റെ പൂർണരൂപത്തിലുള്ള ഒരു മെട്രിക്സ് പതിപ്പ് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ആദ്യ പേപ്പർ മാക്സ് ബോണും പാസ്കൽ ജോർദാനും ചേർന്ന് പുറത്തിറക്കി പിന്നീട് ഇതിന്റെ ഒരു പൂർണരൂപം മാക്സ് ബോൺ ഹൈസെൻബെർഗ് പാസ്കൽ ജോർദാൻ ഇവർ ചേർന്ന് പ്രസിദ്ധീകരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെ മെട്രിക്സ് ഉപയോഗപ്പെടുത്തും എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ മുഖവുര തരാനാണ് ഉദ്ദേശിക്കുന്നത് ഹാർമോണിക് ഓസിലേറ്റർ പോലുള്ള വളരെ ലളിതമായ സിസ്റ്റം ഒഴികെയുള്ള സിസ്റ്റങ്ങളിൽ ഈ രീതി വളരെ സങ്കീർണ്ണമാണ് അതുകൊണ്ടുതന്നെ എർവിൻ ഷ്രോടിൻജർ Erwin Schrödinger വേവ് മെക്കാനിക്സ് വികസിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സ് ശാസ്ത്രപ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു യഥാർത്ഥ രീതിയായി വികസിച്ചത് ഇതിനെകുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്നാലും ഒരു ഹ്രസ്വ ആമുഖം എന്ന നിലയിലും വേവ് മെക്കാനിക്സിലേക്ക് കടക്കാൻ നമുക്കാവശ്യമായ പശ്ചാത്തലം ഒരുക്കാനും ഈ പേപ്പർ ചർച്ച ചെയ്യാം മാക്സ് ബോൺ ഹൈസെൻബെർഗ് പാസ്കൽ ജോർദാൻ ഇവർ ചേർന്ന് പ്രസിദ്ധീകരിച്ച ഈ പേപ്പറിൽ x യെ Cnn α nn α എന്നീ സംഖ്യകളുടെ ശേഖരമായി സങ്കൽപ്പിച്ചു ഇവയുടെ ടൈമിനനുസരിച്ചുള്ള മാറ്റം കാണിക്കുന്ന പദം ആയി einn αt എടുത്തു അപ്പോൾ വെലോസിറ്റി അതായത് വെലോസിറ്റിയുടെ കോയെഫിഷ്യന്റ് ആയിരിക്കും ഇവിടെ nn α എന്നത് ട്രാൻസിഷൻ ഫ്രീക്വൻസി തന്നെ ആണ് ഇവയെല്ലാം ഉപയോഗിച്ച് മാക്സ് ബോൺ ക്വാണ്ടം കണ്ടിഷനുകൾ വളരെ നന്നായി ആവിഷ്കരിച്ചു അതാണ് നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് അപ്പോൾ മാക്സ് ബോൺ എങ്ങനെയാണ് മെട്രിക്സുകൾ അടിസ്ഥാനമാക്കി ക്വാണ്ടം കണ്ടീഷനുകൾ ആവിഷ്കരിച്ചതെന്നു നോക്കാം വാസ്തവത്തിൽ ഇവ അത്രയും അടിസ്ഥാനപരമായുള്ളതാണ് എന്നതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലും ഇത് കൊത്തിവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന്റെ ഒരു ചിത്രം ഞാൻ ഡിസ്കഷൻ ഫോറത്തിലേക്ക് അയച്ചുതരാം ഹൈസെൻബെർഗ് ആവിഷ്കരിച്ച ക്വാണ്ടം കണ്ടീഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതനുസരിച്ച് ഇത് നമുക്ക് ചെറുതായി വ്യത്യാസപ്പെടുത്തി എഴുതാം ഇവിടെ Cnαn Cn n α ഇവ കോംപ്ലക്സ് കോൺചുഗേറ്റ് കളാണ് ഇതിനെ p x അല്ലെങ്കിൽ p q ഇവ ഉപയോഗിച്ചെഴുതാം ഇവിടെ q എന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് ഇങ്ങനെ എഴുതാനായി 2𝜋 ഇക്വേഷന്റെ വലതുവശത്തേക്കെടുത്തു പിന്നെ inαnCnαn എന്നത് vnαn ആണ് അതുപോലെ in n αCn n α എന്നത് vn n α ആണ് മാത്രമല്ല Cnα nCn nα Cn n αC n αn അപ്പോൾ മാസ്സ്✕വെലോസിറ്റി എന്നത് മൊമെന്റം p ആണല്ലോ അപ്പോൾ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാം

ഇത് പുനഃക്രമീകരിച്ച് എഴുതിയാൽ ഇവിടെ നമ്മൾ യിലുള്ള സമ്മേഷൻ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടുതന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അനുസരിച്ച് ഇതിലെ ഒന്നാമത്തെ പദം nn ഉം രണ്ടാമത്തെ പദം nn ഉം ആണ് അപ്പോൾ മെട്രിക്സ് രൂപത്തിൽ എഴുതിയാൽ അല്ലെങ്കിൽ നീൽ ബോർ എഴുതിയത് പോലെ ഈ ഇക്വേഷൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉപയോഗിച്ച് എഴുതാം x നു പകരം ഇവിടെ q എന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് p എന്നത് ജനറലൈസ്ഡ് മൊമെന്റം കോർഡിനേറ്റ് എന്നിങ്ങനെയാക്കി നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം മുൻപ് ഞാൻ പറഞ്ഞതോർക്കുന്നുണ്ടാകുമല്ലോ p d Ed q ആണെന്ന് ഇക്വേഷനിൽ ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ക്വാണ്ടം കണ്ടീഷൻ ഇങ്ങനെ എഴുതാം

അതിനർത്ഥം p q q p യുടെ ഡയഗണൽ ഘടകങ്ങൾ iħ അതായത് കോൺസ്റ്റന്റ് ആണെന്നാണ് ഇതിന്റെ അന്യ ഘടകങ്ങൾ അതായത് ഡയഗണൽ അല്ലാത്തവ സീറോ ആയിരിക്കും ഇതിനുള്ള വിശദീകരണം പിന്നീട് നൽകാം ഡയഗണൽ അല്ലാത്ത ഘടകങ്ങൾ സീറോ ആണെന്നതിന്റെ അർഥം മെട്രിക്സ് കോൺസ്റ്റന്റ് ആയിരിക്കുമെന്നാണ് ഇതിനർത്ഥം എന്താണെന്ന് നോക്കൂ ഇപ്പോൾ ക്വാണ്ടം കണ്ടീഷൻ ഇവിടെ I എന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡയഗണൽ അല്ലാത്ത എല്ലാ ഘടകങ്ങളും സീറോ ആണെന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് വേണമെങ്കിൽ ഇത് ഒരു അനുമായെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നോക്കാം നമ്മൾ p x x p യുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്

മധ്യത്തിലുള്ള രണ്ടു പദങ്ങളും തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടും അപ്പോൾ നമുക്കിതിനെ എന്നെഴുതാം ഇത് എഴുതുന്ന ക്രമം വളരെ പ്രധാനമാണ് നിങ്ങൾക്കറിയാം ഇത് fx xf ആണെന്ന് f എന്നത് ഫോഴ്സ് ആണ് ഫോഴ്സ് x നെ മാത്രമേ ആശ്രയിക്കുന്നുള്ളുവെങ്കിൽ x f f x ആണ് അതുകൊണ്ട് ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കൂ എന്ന മെട്രിക്സ് കോൺസ്റ്റന്റ് ആണെന്നർത്ഥം അതിനർത്ഥം എന്താണ് മെട്രിക്സിന്റെ ഡയഗണൽ അല്ലാത്ത ഘടകങ്ങളെല്ലാം സീറോ ആണെന്നർത്ഥം ഇവിടെ ഞാൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് q തന്നെ എടുക്കുകയാണ് ഇതനുസരിച്ചാണ് നമുക്ക് എന്ന് ലഭിച്ചത് ഇത് തന്നെയാണ് മാക്സ് ബോണിന്റെ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്നത് ക്വാണ്ടം കണ്ടീഷൻ ഇപ്രകാരം മെട്രിക്സ് രൂപത്തിൽ എഴുതുന്ന ആദ്യത്തെ ഇക്വേഷൻ ആണിത്

എന്ന ക്വാണ്ടം കണ്ടീഷന്റെ ഒരു അന്തരഫലമെന്തെന്നാൽ p q അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേരിയബിൾ നെ സൂചിപ്പിക്കുന്ന എല്ലാ മെട്രിക്സുകളും ഇൻഫിനിറ്റ് ഡയമെൻഷൻ മെട്രിക്സുകൾ ആയിരിക്കും ഈ ക്വാണ്ടം കണ്ടീഷന്റെ രണ്ടു വശത്തേയും 'ട്രേസ്' എടുത്താൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും ഇടതുവശത്തെ ട്രേസ് അതായത് Tr pq qp അഥവാഎല്ലാ ഡയഗണൽ ഘടകങ്ങളുടെയും ആകെ തുക എടുത്താൽ ഇത്തരം മെട്രിക്സ് പ്രൊഡക്ററ് ന് അത് സീറോ ആയിരിക്കും

കാരണം 'ട്രേസ്' ഒരിക്കലും മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷന്റെ ക്രമത്തിനെ ആശ്രയിക്കുന്നില്ല എന്നാൽ വലതുവശത്തെ ട്രേസ് എടുത്താൽ അതായത് അപ്പോൾ ഇടതുവശത്ത് ട്രേസ് 0 വലതു വശത്ത് ഇൻഫിനിറ്റി p q ഇവ ഇൻഫിനിറ്റ് ഡയമെൻഷൻ മെട്രിക്സുകളല്ലെങ്കിൽ ഇത് ഒരിക്കലും ശരിയാവില്ല കാരണം ട്രേസ് ഒരിക്കലും മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷന്റെ ക്രമത്തിനെ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് ഫൈനൈറ്റ് മെട്രിക്സിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇൻഫിനിറ്റ് മെട്രിക്സിന്റെ കാര്യത്തിൽ ഇത് ശരിയല്ല അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ മെട്രിക്സ് രൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റികളും ഇൻഫിനിറ്റ് ഡയമെൻഷൻ മെട്രിക്സുകളാണ് 2 ഇക്വേഷൻ ഓഫ് മോഷൻ അതായത് ചലന സമവാക്യങ്ങളും മെട്രിക്സുകൾ ഉപയോഗിച്ച് എഴുതാവുന്നതാണ് ഇത് ക്ലാസിക്കൽ ചലന സമവാക്യം തന്നെ ആയിരിക്കും ക്ലാസിക്കൽ ഇക്വേഷനുകൾ ഹാമിൽട്ടോണിയൻ ഡയനാമിക്സ് അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് ഇപ്പോൾ വിശദീകരിച്ചാൽ ഈ കോഴ്സിന്റെ വ്യാപ്തിക്കുമപ്പുറം പോകുമെന്നതിനാൽ ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ വിവരിക്കുന്നില്ല 3 ചലന സമവാക്യങ്ങൾ എഴുതി അതിൽ നിന്നും നേരത്തെ ചെയ്തതുപോലെ നമുക്ക് വേണ്ട ക്വാണ്ടം കണ്ടീഷനിലേക്കെത്താൻ അതായത് മെട്രിക്സിലെ ഘടകങ്ങൾ കാണാനായി നല്ല ബുദ്ധിമുട്ടുണ്ട് അതായത് ആ കാലഘട്ടത്തിൽ മെട്രിക് മെക്കാനിക്സ് അത്ര പരിചിതമല്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടു തന്നെ ആയിരുന്നു കൺസേർവേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വോൾഫ്ഗാങ് എൺ പോളി ഹൈഡ്രജൻ ആറ്റത്തിന്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിച്ചത് എന്നാൽ ഇത് വളരെ സങ്കീർണമായിത്തീർന്നതിനാൽ തുടരാൻ സാധിച്ചില്ല ക്വാണ്ടം മെക്കാനിക്സ് അതിന്റെ ലാളിത്യത്തോടുകൂടി പ്രായോഗികതലത്തിൽ കൊണ്ടുവരാൻ വേവ് മെക്കാനിക്സ് ന്റെ വികസനം വരെ കാത്തിരിക്കേണ്ടി വന്നു ഇതിനെകുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ചചെയ്യാം ഇത്രയുമാണ് ക്വാണ്ടം മെക്കാനിക്സിനെക്കുറിച്ചുള്ള ഒരു ആമുഖം ഈ ആഴ്ച നമ്മൾ മെട്രിക് മെക്കാനിക്സിലൂടെ ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്ന് ചർച്ച ചെയ്യാനായി എടുത്തു ഇവിടെ നമ്മൾ നിർത്തുകയാണ് അടുത്ത ആഴ്ച വേവ് മെക്കാനിക്സിലേക്കു കടക്കാം